എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ സിസ്റ്റങ്ങളിൽ ലിനക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു ഞങ്ങൾ ഉബുണ്ടു 14 04 ഡെസ്ക്ടോപ്പ് പതിപ്പ് ഒരു വെർച്വൽ പരിതസ്ഥിതിയിൽ ഇൻസ്റ്റാൾ ചെയ്തു ഈ വീഡിയോയിൽ ഞങ്ങൾ നിർത്തിയിടത്ത് നിന്ന് ആരംഭിക്കും ഈ വീഡിയോയിൽ ടെർമിനൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഉബുണ്ടുവിൽ പൈത്തൺ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്നും നമ്മൾ പഠിക്കും അതിനാൽ നിങ്ങൾ ഉബുണ്ടുവിന്റെ ഇൻസ്റ്റാളേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ സിസ്റ്റം പുനരാരംഭി ക്കുമ്പോൾ നിങ്ങൾ ഈ ലോഗിൻ സ്ക്രീനിൽ എത്തും ഈ ലോഗിൻ സ്ക്രീനിൽ നിങ്ങൾ സൃഷ്ടിച്ച ഒരു ഉപയോക്തൃ അക്കൌണ്ടും അതിഥി സെഷനും ഉണ്ടായിരിക്കും ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ സൃഷ്ടിച്ച പാസ്വേഡ് ഇടുക ലോഗിൻ ചെയ്യാൻ എന്റർ അമർത്തുക ഇപ്പോൾ നിങ്ങളുടെ പുതിയ വെർച്വൽ മെഷീനിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത് ഇതാദ്യമായതിനാൽ ഡെസ്ക്ടോപ്പ് ലോഡുചെയ്യുന്നതിന് കുറച്ച് നിമിഷങ്ങൾ എടുക്കും ഉബുണ്ടു ഡെസ്ക്ടോപ്പ് ഇങ്ങനെയാണ് ഇടത് വശത്തെ നിരയിൽ നിങ്ങൾക്ക് ഒരു കൂട്ടം ഐക്കണുകൾ കാണാം ഉബുണ്ടുവിൽ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത ചില ആപ്ലിക്കേഷനുകളാണ് അവ ആദ്യം ടെർമിനലിൽ എങ്ങനെ എത്തിച്ചേരാം എന്ന് നോക്കാം ഇടതുവശത്തുള്ള മൌസ് പോയിന്റർ എടുക്കുക ഇടത് നിരയിലെ ഐക്കണുകളുടെ കൂട്ടത്തിലെ ആദ്യത്തെ ഐക്കണിൽ ക്ലിക്കുചെയ്യുക നിങ്ങളുടെ വെർച്വൽ മെഷീനിൽ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരയാൻ കഴിയുന്ന ഒരു തിരയൽ ഏരിയ ഇത് തുറക്കും ഇപ്പോൾ ഇവിടെ 'ടെർമിനൽ' എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾ ടെർമിനൽ ആപ്പ് കാണും ടെർമിനൽ തുറക്കാൻ ആപ്പിൽ ഇടത് ക്ലിക്ക് ചെയ്യുക ഉബുണ്ടുവിനായുള്ള ഒരു കമാൻഡ് ലൈൻ ഇന്റർഫേസാണ് ടെർമിനൽ ഇത് വിൻഡോസിനായുള്ള എം സ് ഡോസ് ന് സമാനമാണ് പക്ഷേ ഇത് എം ഡോസ് ൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇത് പിന്തുണയ്ക്കുന്ന കമാൻഡുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യത്തിൽ പല തരത്തിൽ ഇത് എം ഡോസ് നേക്കാൾ വളരെ ശക്തമാണ് അതിനാൽ ആദ്യം ഈ വെർച്വൽ മെഷീനിൽ ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ പിംഗ് സ്പേസ് ഗൂഗിൾ ഡോട്ട് കോം ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക ഇപ്പോൾ അത്തരം മറുപടികൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം പിംഗ് ചെയ്യുന്നത് നിർത്താൻ കൺട്രോൾ സി അമർത്തുക റിക്വസ്റ്റ് ടൈംഡ് outട്ട് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് ലഭ്യമല്ല തുടങ്ങിയ മറ്റ് ചില എറർ സന്ദേശങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം ഈ വെർച്വൽ മെഷീനിൽ ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഈ വെർച്വൽ മെഷീന്റെ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനും ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്ന വിധത്തിൽ നിങ്ങൾ വെർച്വൽ മെഷീൻ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ദയവായി മുൻ വീഡിയോ കാണുക ഇപ്പോൾ ഉബുണ്ടുവിന്റെ പുതിയ ഇൻസ്റ്റാളേഷനിൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാളേഷനായി ലഭ്യമായ പാക്കേജുകളുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ടെർമിനലിൽ sudo apt get update കമാൻഡ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യാം ഇപ്പോൾ ഇത് ഒരു സിസ്റ്റം ലെവൽ പ്രവർത്തനമാണ് അതിനാൽ ഒരു സൂപ്പർ ഉപയോക്താവിന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അവകാശങ്ങളുള്ള ഒരു ഉപയോക്താവിന് മാത്രമേ ഈ കമാൻഡ് നടപ്പിലാക്കാൻ കഴിയൂ അതുകൊണ്ടാണ് മിക്ക apt get കമാൻഡുകളും നടപ്പിലാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ sudo ചേർക്കുന്നത് സൂപ്പർ യൂസർ ഡോ എന്നതിന്റെ ചുരുക്കമാണ് സുഡോ ഇപ്പോൾ അത് നിങ്ങളുടെ അക്കൌണ്ട് പാസ്സ്വേർഡ് ആവശ്യപ്പെടും സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും നീക്കം ചെയ്യാനും നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്ന ഉബുണ്ടുവിനായുള്ള ഒരു കമാൻഡ് ലൈൻ പാക്കേജ് മാനേജ്മെന്റ് ടൂളാണ് apt get നിങ്ങൾ അപ്ഡേറ്റ് വിത്ത് apt get എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റിൽ നിന്ന് ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ പാക്കേജുകളുടെയും അവയുടെ ലഭ്യമായ ഏറ്റവും പുതിയ പതിപ്പുകളുടെയും ഒരു ലിസ്റ്റ് ഡൌൺലോഡ് ചെയ്യാൻ ഈ പാക്കേജ് മാനേജർക്ക് ഇത് നിർദ്ദേശിക്കുന്നു സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ URL കളുടെ ഒരു ലിസ്റ്റ് കാണാം അവിടെ നിന്ന് apt get പാക്കേജുകളുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് ഡൌൺലോഡ് ചെയ്യുന്നു ഉബുണ്ടുവിന്റെ വിവിധ പതിപ്പുകൾക്ക് ലഭ്യമായ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ പാക്കേജുകളുടെ ലിസ്റ്റ് പരിപാലിക്കുന്ന ഓൺലൈൻ സോഫ്റ്റ്വെയർ ശേഖരങ്ങളാണ് ഈ URL കൾ ഈ കോഴ്സിന്റെ ഉദ്ദേശ്യത്തിനായി ഞങ്ങൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല apt get അപ്ഡേറ്റ് പ്രവർത്തനം പൂർത്തിയായാൽ നമുക്ക് പൈത്തൺ ഉപയോഗിച്ച് ആരംഭിക്കാം ഇപ്പോൾ ഉബുണ്ടുവിന്റെ മിക്ക പതിപ്പുകളിലും പൈത്തൺ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തു ലഭിക്കും ടെർമിനലിൽ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പൈത്തൺ ഷെല്ലിൽ പ്രവേശിക്കാം ഇവിടെ പൈത്തൺ പതിപ്പ് 2 6 ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം പൈത്തണുമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് നമുക്ക് പൈത്തണിനായി ഒരു പാക്കേജ് മാനേജർ ഇൻസ്റ്റാൾ ചെയ്യണം അതുവഴി നമുക്ക് പുതിയ പൈത്തൺ പാക്കേജുകൾ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും നിയന്ത്രിക്കാനും കഴിയും പൈത്തൺ ഷെല്ലിൽ നിന്ന് പുറത്തുകടന്ന് 'sudo apt get install python hyphen pip' എന്ന് ടൈപ്പ് ചെയ്യുക ഈ കമാൻഡ് apt get പാക്കേജ് മാനേജർക്ക് പൈത്തൺ ഹൈഫൻ പിപ്പ് എന്ന പാക്കേജ് പേര് ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു നമ്മൾ റിപ്പോസിറ്ററികളുടെ പട്ടിക പുതുക്കി ഇരിക്കുന്നു ശേഷം apt get പൈത്തൺ പൈപ്പിന്റെ ഏറ്റവും പുതിയ ലഭ്യമായ പതിപ്പ് ഇൻസ്റ്റാൾ ചെയ്യും നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ apt get യാന്ത്രികമായി ഈ പുതിയ പാക്കേജിന്റെ എല്ലാ ആശ്രിതത്വങ്ങളും കണ്ടെത്തുകയും പൈത്തൺ പിപ്പ് വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതോ അപ്ഗ്രേഡ് ചെയ്യേണ്ടതോ ആയ എല്ലാ പാക്കേജുകളുടെയും ഒരു ലിസ്റ്റ് ശേഖരിക്കുന്നു ഇത് പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതും വളരെ സൌകര്യപ്രദമാക്കുന്നു നമ്മൾ ഉബുണ്ടു ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇതാണ് ഏതെങ്കിലും പതിപ്പ് പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ അനിയന്ത്രിതമായ ആശ്രിതത്വം അല്ലെങ്കിൽ കാണാതായ മൊഡ്യൂളുകൾ മുതലായവയെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇൻസ്റ്റാളേഷൻ പൂർത്തിയായ ശേഷം ഉപയോഗിക്കേണ്ട അധിക ഡിസ്ക് സ്ഥലത്തിന്റെ അളവും ഇത് നിങ്ങളോട് പറയുന്നു ഇപ്പോൾ y അമർത്തി എന്റർ ചെയ്യുക തുടരാൻ ഇപ്പോൾ ഉബുണ്ടുവിനുള്ള പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും നിയന്ത്രിക്കാനും apt get ഉപയോഗിക്കുന്നത് പോലെ പൈത്തണിനുള്ള പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും കൈകാര്യം ചെയ്യാനും പിപ്പ് ഉപയോഗിക്കുന്നു അതിനാൽ ഉബുണ്ടുവിനായി ഞങ്ങൾ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ apt get install ഉപയോഗിച്ചതുപോലെ പൈത്തണിനുള്ള പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് പിപ്പ് ഇൻസ്റ്റാൾ ഉപയോഗിക്കാം ഇപ്പോൾ നമുക്ക് പിപ്പ് ഉപയോഗിച്ച് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ apt get പോലെ നമ്മൾ sudo pip install പാക്കേജ് പേര് ടൈപ്പ് ചെയ്യുന്നു അഭ്യർത്ഥനകൾ എന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഒരു അഭ്യർത്ഥനയാണ് പൈത്തണിനുള്ള http ലൈബ്രറി അടുത്ത ട്യൂട്ടോറിയലിൽ ചില സോഷ്യൽ നെറ്റ്വർക്ക് API കളിലേക്ക് അഭ്യർത്ഥനകൾ നേടുക അയയ്ക്കാൻ നമ്മൾ ഈ പാക്കേജ് ഉപയോഗിക്കും അതിനാൽ ഇത് ഇതിനകം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതായി തോന്നുന്നു അതിനാൽ നമുക്ക് പൈത്തൺ ഷെല്ലിലേക്ക് പോകാം ഈ ലൈബ്രറി പരീക്ഷിക്കുക ടെർമിനലിൽ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക ഇപ്പോൾ ഏതെങ്കിലും ലൈബ്രറി ഉപയോഗിക്കുന്നതിന് നമ്മൾ ആദ്യം അത് ഇറക്കുമതി ചെയ്യണം അതിനാൽ നമ്മൾ ഇറക്കുമതി അഭ്യർത്ഥനകൾ എഴുതുകയും എന്റർ അമർത്തുകയും ചെയ്യുക ഇത് സി അല്ലെങ്കിൽ സി പ്രോഗ്രാമിംഗിലെ പ്രസ്താവനകൾ ഉൾക്കൊള്ളുന്ന ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റുമായി വളരെ സാമ്യമുള്ളതാണ് ഇപ്പോൾ Google ഡോട്ട് കോമിലേക്ക് ഒരു ഗെറ്റ് റിക്വസ്റ്റ് അയച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം നിങ്ങളുടെ ബ്രൌസറിൽ ഗൂഗിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റ് തുറക്കുമ്പോൾ നിങ്ങളുടെ ഇന്റർനെറ്റ് ബ്രൌസർ ചെയ്യുന്ന അതേ കാര്യമാണിത് ഇത് വെബ്സൈറ്റിലേക്ക് ഒരു ഗെറ്റ് റിക്വസ്റ്റ് അയയ്ക്കുകയും ഒരു പ്രതികരണം സ്വീകരിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ പൈത്തണിലും ഇതുതന്നെയാണ് ചെയ്യുന്നത് അതിനാൽ Google ഡോട്ട് കോം നേടാനുള്ള അഭ്യർത്ഥനകൾക്ക് തുല്യമായ പ്രതികരണം നമ്മൾ എഴുതുകയും എന്റർ അമർത്തുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ പ്രതികരണം ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തണം 200 കോഡുള്ള പ്രതികരണ വസ്തു നിങ്ങൾ കാണും ഇപ്പോൾ 200 എന്നത് ഒരു ഓ രേസ്പോൻസ് നുള്ള http കോഡാണ് ഇതിനർത്ഥം നമ്മൾക്ക് വിജയകരമായി അഭ്യർത്ഥന അയക്കാനും പ്രതികരണം നേടാനും കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ പ്രതികരണത്തിന്റെ ടെക്സ്റ്റ് ഭാഗം കാണാൻ നമ്മൾ രേസ്പോൻസ് ഡോട്ട് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക ഇത് ഗൂഗിൾ ഡോട്ട് കോം ന്റെ HTML സോഴ്സ് കോഡാണ് നിങ്ങളുടെ ബ്രൌസറിൽ ഗൂഗിൾ തുറക്കുമ്പോൾ അതേ പ്രതികരണം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ബ്രൌസറിന് ഈ HTML കോഡ് മനസ്സിലാക്കാനും നിങ്ങൾ ഈ കാണുന്ന ഒരു മനോഹരമായി കാണുന്ന വെബ് പേജായി കാണിക്കാനും കഴിയും നമുക്ക് പൈത്തൺ ഷെല്ലിൽ നിന്ന് പുറത്തുവന്ന് ഒരു സ്ക്രിപ്റ്റിൽ ഒരു പൈത്തൺ കോഡ് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫയൽ കാരണം നിങ്ങൾക്ക് ഷെല്ലിൽ എന്നെന്നേക്കുമായി പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല കാരണം നിങ്ങൾ ഷെല്ലിൽ നിന്ന് പുറത്തുകടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കോഡും നഷ്ടപ്പെടും ഇപ്പോൾ നമുക്ക് ഒരു പുതിയ പൈത്തൺ സ്ക്രിപ്റ്റ് ഫയൽ തുറന്ന് അതിന് ഹലോ ഡോട്ട് പൈ എന്ന് പേരിടാം ഈ സ്ക്രിപ്റ്റ് എഴുതാൻ ഞാൻ vi എഡിറ്റർ ഉപയോഗിക്കും എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടെക്സ്റ്റ് എഡിറ്ററും ഉപയോഗിക്കാം നമുക്ക് പതിവ് ഹലോ വേൾഡ് പ്രോഗ്രാം എഴുതാം ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾ ഫയലിൽ പ്രിന്റ് ഹലോ വേൾഡ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക പൈത്തൺ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പൈത്തൺ സ്പേസ് ഹലോ ഡോട്ട് പൈ എഴുതി എന്റർ അമർത്തുക ഇവിടെ നിങ്ങൾക്ക് പൈത്തണിലെ ആദ്യത്തെ ഹലോ വേൾഡ് പ്രോഗ്രാം ലഭിച്ചു ഇതെല്ലാം ഈ ട്യൂട്ടോറിയലിൽ ഉണ്ട് ഈ ട്യൂട്ടോറിയൽ ഉബുണ്ടുവിനും പൈത്തണിനും ഒരു സ്റ്റാർട്ടർ കിറ്റ് ആയിരുന്നു അടുത്ത ട്യൂട്ടോറിയലിൽ ഗ്രാഫ് API ഉപയോഗിച്ച് ഫേസ്ബുക് ൽ നിന്ന് ഡാറ്റ എങ്ങനെ ശേഖരിക്കാമെന്ന് ഞങ്ങൾ പഠിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി NPTEL ചർച്ചാ ഫോറത്തിൽ പോസ്റ്റുചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ വിശദീകരണങ്ങളോ സഹായങ്ങളോ നിങ്ങളെ സഹായിക്കുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്